ഇനി നമുക്ക് കീ വാല്യൂ സ്റ്റോറിലേക്ക് പോകാം ഇതിന്റെ അടിസ്ഥാനപരമായ ആശയം എന്തെന്നാൽ ഇവിടെ രണ്ട് കോളങ്ങൾ ഉണ്ട് അതിൽ രണ്ടു കാര്യങ്ങൾ ഉണ്ട് ആദ്യത്തേത് കീ പിന്നെ വാല്യൂ ഇതാണ് ഈ മൊത്തം ഡേറ്റാബേസ് സ്കീമ അപ്പോൾ ഇത് കീ ഇത് വാല്യൂ ഇത് ഹാഷിംഗ് പോലെയാണ് അപ്പോൾ കീ എന്തും ആകാം അത് സാധാരണയായി ടെക്സ്റ്റ് ആണ് ആകാറുള്ളത് പക്ഷെ അത് ഡേറ്റാബേസ് സിസ്റ്റം കൊടുത്തിട്ടുള്ള ഐഡി ആകാം അല്ലെങ്കിൽ അതിനു തന്നെ സ്വന്തം കീ കൊടുക്കാം പക്ഷെ ഇത് കൂടുതലും ഹാഷിംഗ് പോലെയാണ് അതു പോലെ തന്നെ വാല്യൂവും എന്തുമാകാം അതായത് വാല്യൂവിനെ അകത്തു വെച്ചു തന്നെ ഒരുപാട് ആട്രിബ്യൂട്ടുകളായോ മൂല്യങ്ങളായോ മുറിക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് ഡൈമെൻഷനായിട്ടും ചെയ്യാൻ പറ്റും പക്ഷേ ഈ കീ എന്നത് ഒരു ഒറ്റ കാര്യം ആണ് അതിനെ അസ്സയിൻ ചെയ്യുന്നത് ഡേറ്റാബെസിൽ ആണ് അത് എങ്ങനെയാണ് ചെയ്യുന്നത് ഒരാൾക്ക് ഒരു പ്രത്യേക ട്യൂപുളിനെ കണ്ടു പിടിക്കണം എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ അയാൾക്ക് അത് കീ ആണ് എന്ന് പറയണം കീയുടെ കഴിഞ്ഞതിനു ശേഷം അത് ഇതിനെ കണ്ടു പിടിക്കും എന്നിട്ട് അതിന്റെ വാല്യൂ ഒറ്റ എൻറ്റിറ്റിയായി തിരിച്ചു കൊടുക്കും അത് ടെക്സ്റ്റ് ആകാം അല്ലെങ്കിൽ സിസ്റ്റത്തിന് കൊടുക്കുന്ന മറ്റ് എന്തെങ്കിലും ആയിരിക്കാം ഇനി സിസ്റ്റത്തിന് ഈ മൂല്യത്തെ നോക്കണം സിസ്റ്റത്തിന് അറിയണം ആ ഒരു പ്രത്യേക ഡേറ്റാ ബെസിന് ഉള്ള വാല്യുവിന് ഒരുപാട് ആട്രിബ്യൂട്ടുകൾ അല്ലെങ്കിൽ അത് ഒരു ടെസ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഇമേജ് ആയിരിക്കാം അങ്ങനെ എന്തെങ്കിലും പക്ഷേ ഇതെല്ലാം ആ ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ അനുസരിച്ചിരിക്കും ഡേറ്റാബെസ് സ്വന്തമായി എന്താണ് വാല്യൂ എന്ന് പറയുകയില്ല ഇത് വാല്യൂ ആണ് എന്നു മാത്രം പറയും അതായത് അതിനെ ഇത് ബ്ളോക്ക് ചെയ്യണം എന്നേ ഉള്ളു പിന്നെ ഇവിടെ കീ ഉണ്ട് ഇവിടെ വാല്യൂ ഉണ്ട് അത്രേ ഉള്ളു ഇത് കീവാല്യൂ സിസ്റ്റത്തിന്റെ ഒബ്ജക്റ്റ്കൾ ആണ് പിന്നെ ഈ മൊത്തം ഡേറ്റാബെസും ഒരു വലിയ ടേബിൾ ആണ് അതിൽ കീകളും വാല്യൂകളും മാത്രമേയുള്ളു ഇതിനെ അപ്പോൾ ഒരു ടേബിൾ ആയി കണക്കാക്കാം കീകളെ ഇവിടെ സൂക്ഷിക്കുന്നു നമ്മൾ എന്തു കൊണ്ടാണ് ഇതിനെ കോളംനാർ എന്ന് പറയുന്നത് കീകളെ ഇവിടെ സൂക്ഷിച്ചതിനു ശേഷം ഇവിടെ കീകളുടെ നേരെ ഒരു പോയിന്റ് ഉണ്ട് അവിടെ വാല്യൂവിന്റെ ഒബ്ജക്റ്റിനെ സൂക്ഷിക്കുന്നു ഇത് ഹാഷിങ്ങ് പോലെയാണ് അപ്പോൾ ഹാഷ് കീകളെ ഒരുമിച്ചാണ് സൂക്ഷിക്കുന്നത് ഓരോ ഹാഷ് കീ ബക്കറ്റിൽ നിന്നും യഥാർത്ഥ വാല്യൂ അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ പോയിന്റ് ഉണ്ടാകും ഇനി സ്കീമാലെസ് എന്ന ഒരു പദം ഉണ്ട് കാരണം ഡേറ്റാബെസ് ഏത് സ്കീമായാണ് ഈ വാല്യൂവിൽ ഉള്ളത് എന്ന് ആകുലപ്പെടുന്നില്ല അത് ഇവിടെ ഒരു കീ ഉണ്ട് ഒരു വാല്യൂ ഉണ്ട് എന്ന് മാത്രമേ നോക്കുന്നുള്ളു അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഡേറ്റാ കേസിനും സ്കീമാ എന്നത് കീ വാല്യൂ മാത്രമാണ് അതിനകത്തുള്ള സ്കീമാ എന്താണെന്ന് നോക്കുന്നില്ല അത് ഒരു വലിയ ഒബ്ജക്റ്റ് ആണോ അതോ ഇമേജാണോ അല്ലെങ്കിൽ അതിനെ സൂക്ഷിച്ചിരിക്കുന്നത് റിലേഷനൽ ഡേറ്റാ ബെസ് രീതിയിൽ ആണോ എന്നൊന്നും നോക്കുന്നില്ല ഇത് വലുതായി സ്കെയിൽ ചെയ്യാനും വിതരണം ചെയ്യാനും സാധിക്കും അതെന്തുകൊണ്ടാണ് നന്നായി വിതരണം ചെയ്യാൻ സാധിക്കുന്നത് ഈ ഡേറ്റബേസിനെ ഒരുപാട് ഭാഗങ്ങളായി മുറിക്കുകയാണ് എന്നിട്ട് അതിനെ മെഷീൻ A മെഷീൻ B മെഷീൻ C എന്നിവക്ക് കൊടുക്കുന്നു ഇനി ഒരുപാട് ഡേറ്റ ഉണ്ടെങ്കിൽ അതിനെ മുറിച്ചിട്ട് മെഷീൻ D യ്ക്കും അങ്ങനെയൊക്കെ കൊടുക്കാം അപ്പോൾ ഇതിനെ വളരെ ലളിതമായി വിതരണം ചെയ്യാൻ സാധിക്കും കാരണം അതിനെ ഇങ്ങനെ മുറിച്ച് കീയെ വിതരണം ചെയ്യുന്ന ജോലി മാത്രമേ ഇവിടെയുള്ളൂ അപ്പോൾ ഇത് മൊത്തത്തിൽ ഒരു വലിയ വിതരണം ചെയ്ത ഹാഷ് ടേബിൾ ആണ് അതു കൊണ്ട് ഇതിനെ പല മെഷീനുകളിലായിട്ടാണ് വിതരണം ചെയ്തിരിക്കുന്നത് ഇനി എല്ലാ ചോദ്യങ്ങളും കീയിലേയ്ക്കാണ് വരുന്നത് ഹാഷിൽ ഉള്ളതുപോലെ ആർക്കും ചോദ്യം വാല്യൂവിലേക്ക് കൊടുക്കാൻ പറ്റില്ല ആർക്കും ഈ വാല്യൂവിലുള്ള കീ തരണം എന്നു ചോദിക്കാൻ പറ്റത്തില്ല അപ്പോൾ ചോദ്യങ്ങൾ എല്ലാം കീയിലോട്ടാണ് പോകുന്നത് ഇതാണ് ഇതു കൊണ്ടുള്ള ഒരു ദോഷം കാരണം നമുക്ക് ഇതിനകത്തുള്ള വില്യൂവിനെ നോക്കുവാൻ സാധിക്കുകയില്ല കീകളെ എല്ലാം ഇവിടെ ഇൻഡക്സ് ചെയ്തു വച്ചിരിക്കുകയാണ് കാരണം നമുക്ക് എല്ലാ കീകളെയും പരിശോധിച്ചു നോക്കുവാൻ സാധിക്കുകയില്ല കീകൾ ഇവിടെ ഇൻഡക്സ് ചെയ്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കീകളെ ഇൻഡക്സ് ചെയ്യണം ഇല്ലെങ്കിൽ ഇവിടെ ഇത് ഉപയോഗിച്ചതുകൊണ്ട് ഗുണം ഉണ്ടാകുകയില്ല അപ്പോൾ ഇത് ഒരു വലിയ ടേബിൾ ആണ് ഈ മെമ്മറിയെ ഇതിൽ ക്യാഷേ ആയി ഉപയോഗിക്കാം ചില മെഷീനുകളിൽ ചോദ്യങ്ങൾ എവിടെ വരുന്നുവോ ആ മെഷീനുകളുടെ മെമ്മറിയെ ക്യാഷേയായിട്ട് ഉപയോഗിക്കും ചില കീകളെ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അവയെ വീണ്ടും ചോദ്യം ചോദിക്കുവാൻ വേണ്ടും ക്യാഷേയിൽ നിന്നും എടുക്കാം ഇത്തരത്തിലുള്ള സിസ്റ്റത്തിന്റെ ഉദാഹരണം എന്താണ് കസാൻഡ്ര ഒരു വലിയ ഉദാഹരണമാണ് പിന്നെ കവുച്ച് D B ഉണ്ട് പിന്നെ റെഡിസ് ഉണ്ട് ഈ കീ വാല്യൂ സ്റ്റോറുകൾക്ക് വേറെയും ഉദാഹരണങ്ങൾ ഉണ്ട് ഇതൊക്കെയാണ് കീ വാല്യൂ സ്റ്റോറുകളുടെ ഉദാഹരണങ്ങൾ നമുക്ക് ഇനി ബിഗ് ടേബിൾ സിസ്റ്റത്തിലേക്കു പോകാം ഒരു ദശാബ്ദം മുൻപ് ഗൂഗിളിന് ബിഗ് ടേബിൾ ഉണ്ടായിരുന്നു ഗൂഗിളിന് സ്കീമ റിലേഷണൽ ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് ഗൂഗിളിന് ഡേറ്റാബേസ് ഉണ്ടായിരുന്നു എന്നാണ് റിലേഷണൽ അല്ല അതിനെ ബിഗ് ടേബിൾ എന്നാണ് വിളിച്ചിരുന്നത് അപ്പോൾ ഈ ബിഗ് ടേബിൾ സിസ്റ്റം ഇവിടെ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിനെ ബിഗ് ടേബിൾ എന്നു വിളിക്കുന്നത് ഗൂഗിൾ ആണ് ഇതിനെ ബിഗ് ടേബിൾ എന്നു വിളിച്ചു തുടങ്ങിയത് ഇത് യഥാർത്ഥത്തിൽ ഒരു കീ വാല്യൂ സ്റ്റോർ ആണ് അപ്പോൾ ഇത് വെറും കീ വാല്യൂ സ്റ്റോറാണ് അതിൽ കൂടുതലായി ഒന്നും ഇല്ല ഡേറ്റയെ ഇവിടെ പകർത്തുവാൻ പറ്റും ഇത് കൂടുതൽ ലഭ്യമാണ് ബിഗ് ടേബിൾ സിസ്റ്റം ടൈം സ്റ്റാമ്പ് ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ എന്തു നടന്നാലും അതിനെ സൂക്ഷിക്കാൻ വേണ്ടി ടൈം സ്റ്റാമ്പ് ഉപയോഗിക്കാം ഡേറ്റയെ എപ്പോൾ ടേബിളിലേക്ക് ഇൻസർട്ട് ചെയ്താലും എപ്പോൾ മോഡിഫൈ ചെയ്താലും പല തരത്തിലുള്ള ടൈംസ്റ്റാബ്കളാണ് തരുന്നത് അപ്പോൾ ടൈം സ്റ്റാമ്പുകൾക്ക് കൺസിസ്റ്റൻസി അവസാനം ഉണ്ടാക്കാൻ സഹായിക്കും ഇപ്പോൾ ഒരു പ്രത്യേക ടൈം സ്റ്റാമ്പിൽ അപ്ഡേറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ചു കഴിഞ്ഞ് ചോദ്യം വേറൊരു ടൈം സ്റ്റാമ്പിൽ എത്തുകയാണെങ്കിൽ അവയെ സിന്ക്രണൈസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള ടൈം സ്റ്റാമ്പുകൾ ഉണ്ട് ടൈം സ്റ്റാമ്പുകളെ വേറെ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ സാധിക്കും അതിന് ഒരു ഡേറ്റയെ എക്സ്പയർ ചെയ്യിക്കാൻ സാധിക്കും അപ്പോൾ ഒരു ഡേറ്റ ഒരു പ്രത്യേക സമയം വരയേയുള്ളൂ എന്ന് കൊടുക്കാൻ സാധിക്കും അതിനെ പഴയ ഡേറ്റകളെ ഡിലീറ്റ് ചെയ്യാനും സംഘർഷങ്ങളെ ഒഴിവാക്കുവാനും ഉപയോഗിക്കാവുന്നതാണ് അതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇത് എങ്ങനെയാണ് റീഡിന്റെയും റൈറ്റിന്റെയും സംഘർഷങ്ങൾ ഒക്കെ പരിഹരിക്കുന്നത് എന്നതിനെ കുറിച്ച് നേരത്തെ പഠിച്ചിരുന്നു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് മാപ് റെഡീയൂസ് ഫ്രെയിംവർക്ക് എന്നതാണ് അത് ബിഗ് ടേബിളിന്റെ കൂടെ ചില കാര്യങ്ങളെ കംപ്യൂട്ട് ചെയ്യുവാൻ വേണ്ടി മുന്നോട്ടു പോകാറുണ്ട് ചില ഓപ്പറേഷനുകളെ കംപ്യൂട്ട് ചെയ്യുവാൻ വേണ്ടി മാപ് റെഡീയൂസ് ഫ്രെയിംവർക്കിനെ ഉപയാഗിക്കാവുന്നതാണ് മാപ് റെഡിയൂസ് ഫ്രെയിംവർക്കിന്റെ ഈ പറഞ്ഞ രീതി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം ഉദാഹരണത്തിന് നിങ്ങൾക്ക് പല കാര്യങ്ങളുടെ ഫങ്ങ്ഷനെ കംപ്യൂട്ട് ചെയ്യണം അതിനായി പല മെഷീനുകളിലായി ഇതിനെ ഭാഗങ്ങൾ ആക്കി ഇൻപുട്ട് എന്ന രീതിയിൽ മാപ് ചെയ്യണം ഓരോ മെഷീനും അവരുടെ ജോലി ചെയ്യും അതിനു ശേഷം നമുക്ക് ഇവയെല്ലാം ഒരുമിച്ച് കൊണ്ട് വന്ന് ഒന്നാക്കിമാറ്റാം ഉദാഹരണത്തിനു നമുക്ക് ഇപ്പോൾ 100 സംഖ്യകൾ കൂട്ടണം നമ്മുടെ കൈയിൽ നാലു മെഷീനുകൾ ഉണ്ട് നമ്മൾക്ക് അപ്പോൾ ആദ്യത്തെതിനെ മാപ്പ് ചെയ്യാം ഇത് വളരെ എളുപ്പമുള്ള ഒരു സ്കീം ആണ് ആദ്യത്തെ ഇരുപത്തഞ്ച് സംഖ്യകളെ ആദ്യത്തെ സ്ഥലത്ത് നമ്മൾ മാപ്പ് ചെയ്യുന്നു അടുത്ത ഇരുപത്തഞ്ചു സംഖ്യകളെ രണ്ടാമത്തെ മെഷീനിൽ കൊടുക്കുന്നു അങ്ങനെ അങ്ങനെ അപ്പോൾ ഓരോ മെഷീനുകളും ഇരുപത്തഞ്ചു സംഖ്യകളുടെ സം എടുക്കുന്നു ഇത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത് ഇത് നമ്മൾ പാരലൽ ആയിട്ട് ചെയ്യുമ്പോൾ ജോലി കുറക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ വേഗതയും കൂട്ടുവാൻ സാധിക്കും അപ്പോൾ ഇത് മാപിനെ കുറക്കുന്നു ആദ്യത്തെ ഭാഗം മാപ്പ് ആണ് അതിനു ശേഷം ഈ നാലു സംഖ്യകളായി കുറയുന്നു നമ്മൾ അതിനെ കൊണ്ടുവന്ന് സബ്മീറ്റ് ചെയ്യുന്നു ഇത് നമുക്ക് ആ 100 സംഖ്യകളുടെയും സം തരുന്നു ഇനി ഇത് ശരിയാണോ എന്ന് നമുക്ക് നോക്കണം സം എന്നത് വളരെ എളുപ്പമുള്ള ഒരു ഉദാഹരണമാണ് നമ്മൾക്ക് വേറെ ഒരുപാട് കാര്യങ്ങളിൽ ഈ മാപ് എളുപ്പമായിരിക്കണമെന്നില്ല പക്ഷേ ഇതാണ് മാപ് റെഡീയൂസ് ഫ്രെയിംവർക്കിന്റെ അടിസ്ഥാനപരമായ ആശയം അതിനെ നമ്മൾ ബിഗ് ടേബിൾ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നു ഏതൊക്കെയാണ് ബിഗ് ടേബിൾ സിസ്റ്റത്തിന്റെ ഉദാഹരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ബിഗ് ടേബിൾ പിന്നെ H ബേസ് H ബേസ് പ്രധാനപ്പെട്ട ഒന്നാണ് പിന്നെ കസാൻട്ര അതിൽ നിങ്ങൾക്ക് മാപ് റെഡിയൂസ് ഫ്രെയിംവർക്ക് ഉപയോഗിക്കാം നമുക്ക് കാണാം ഇതെല്ലാം കീ വാല്യൂ സ്റ്റോറുകൾ ആണ് ഇതൊക്കെയാണ് ബിഗ് ടേബിൾ സിസ്റ്റത്തിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് ഇനി ഡോകുമെന്റ് ഡേറ്റാബേസിലേക്കു പോകാം ഡോകുമെന്റിന്റെ അടിസ്ഥാനപരമായ ആശയം എന്തെന്നാൽ അത് ഡോകുമെന്റിനെ ഡേറ്റയുടെ പ്രധാനപ്പെട്ട സ്റ്റോറേജാക്കി ഉപയോഗിക്കുന്നു ഡോകുമെന്റിന് ഒരുപാട് ഫോർമാറ്റുകളുണ്ട് ഒന്ന് XML അടുത്തത് JSON നിങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും പക്ഷെ നിങ്ങൾ BSON നെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകില്ല അതായത് ബൈനറി JSON അതുപോലെ തന്നെ YAML എന്നുള്ളതും ഉണ്ട് ഇവയെല്ലാം അപ്പോൾ ഡോകുമെന്റ് രീതിയിലുള്ള സ്റ്റോറേജുകളാണ് അത് ഡേറ്റയുടെ ചില പ്രത്യേക ഫോർമാറ്റുകൾ ആണ് ഡേറ്റയെ അപ്പോൾ നമുക്ക് പ്രത്യേക ഫോർമാറ്റിൽ സൂക്ഷിക്കാൻ സാധിക്കും ഉദാഹരണത്തിന് XML ഫോർമാറ്റ് XML എന്നത് ഒരു ട്രീ പോലത്തെ കാര്യം ആണ് നമുക്ക് പറയാൻ സാധിക്കും ഡേറ്റയെ ഒരു ട്രീ പോലത്തെ ഫോർമാറ്റിൽ ആണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് അത് XML ആണ് XML ന്റെ ഫെളക്സിബിലിറ്റി എന്തെന്നാൽ ഒരാൾക്ക് അവരുടെ സ്വന്തം സ്കീമയെ വിവരിക്കുവാൻ സാധിക്കം എന്നിട്ട് അത് XML ഡോക്യൂമെന്റിന്റെ ഒരു ഭാഗമാകും ഉദാഹരണത്തിന് എന്റെ കൈവശം ഒരു ലൈബ്രററി ഉണ്ട് ലൈബ്രററി എന്നത് വലിയ ഒരു ചങ്ക് ആണ് നമ്മൾക്ക് XML നെ ഈ രീതിയിൽ വിവരിക്കുവാൻ സാധിക്കും ഈ ലൈബ്രററിക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ചിലപ്പോൾ പുസ്തകങ്ങൾ ആയിരിക്കാം ചിലപ്പോൾ പീരിയോടിക്കൽ ആയിരിക്കാം അങ്ങനെ അങ്ങനെ അപ്പോൾ നമുക്ക് ഈ മൊത്തം സട്രക്ചറിനെ അതായത് ട്രീ സട്രക്ചറിനെ വിവരിക്കുവാൻ സാധിക്കാം പുസ്തകത്തിന് തലക്കെട്ട് ഉണ്ടാകും ഗ്രന്ഥകർത്താവ് ഉണ്ടാകും ISBN ഉണ്ടാകാം അങ്ങനെ അപ്പോൾ ഇതാണ് നിങ്ങളുടെ സ്കീമാ ഈ ഒരു ഭാഗം XML ന്റെ ഒരു ഭാഗമായി മാറുന്നു അപ്പോൾ നമ്മുടെ മൊത്തം ലൈബ്രററിയുടെ കളക്ഷനെയും വിവരിക്കുവാൻ ഇതുകൊണ്ട് സാധിക്കും നമ്മൾ ആദ്യം ലൈബ്രററിയുടെ വ്യാപ്തിയെ വിവരിക്കും പിന്നെ അതിനുള്ളിലെ പുസ്തകങ്ങളുടെ വ്യാപ്തിയെ വിവരിക്കും അതിനുള്ളിലെ ടൈറ്റിൽ വാല്യൂകളെ വിവരിക്കും അങ്ങനെയാണ് XML ചെയ്യുന്നത് അപ്പോൾ XML ന്റെ ഡോക്യൂമെന്റ് മുഴുവനും ഒരു ഡേറ്റാബെയ്സ് തന്നെയാണ് അപ്പോൾ ഒരു പ്രത്യേക പുസ്തകം ലൈബ്രററിക്കുള്ളിൽ ഉണ്ടെങ്കിൽ XML ടാഗ്കൾ ആ പുസ്തകത്തിന് കൊടുക്കുന്നു ഇനി ആ പുസ്തകത്തിനുള്ളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു അതിനുശേഷം ഈ പുസ്തകത്തെ അടയ്ക്കുകയാണ് ഇത് HTML ടാഗ് പോലെയാണ് അപ്പോൾ ഇതു തന്നെ ഒരു കീ ആയി മാറുകയാണ് ഇതെല്ലാം ഒരു വലിയ XML ഡോക്യൂമെന്റിനകത്ത് വരുകയാണ് ഈ ഡോക്യൂമെന്റിനെ ഒരു പ്രത്യേക സ്ഥലത്തു വയ്ക്കാം അതാണ് URI പോലുള്ളവ പക്ഷേ മറ്റു സിസ്റ്റങ്ങളെ പോലെ തന്നെ എന്താണ് ഈ ഡോക്യൂമെന്റിനകത്ത് ഉള്ളത് അതിനകത്ത് ഒരു ഓതർ ഫീൽഡ് ഉണ്ടോ എന്ന് നോക്കുക അതെല്ലാം നോക്കേണ്ടതാണ് ഡേറ്റാ ബെസ് വിശകലനം ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു മെക്കാനിസവും തരുന്നില്ല അത് ആപ്ലികേഷൻ അനുസരിച്ചായിരിക്കും എഴുത്തുകാരെ കണ്ടു പിടിക്കണമെന്നുണ്ടെങ്കിൽ അത് ആ പ്രത്യേക എഴുത്ത്കാരനെ നോക്കാം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗമാണ് റിലേഷനൽ ഡേറ്റാബെസ് ഫോർമാറ്റിൽ സ്കീമാ ഒരു പ്രാവശ്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഡേറ്റാ ബെസ് തന്നെ എല്ലാ വിശകലനവും സ്വന്തമായി ചെയ്തോളും ഇനി ഈ സ്കീമാ നിങ്ങളുടെ കൈയിൽ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ എന്റെ കൈയിൽ ഈ താഴെ പറയുന്ന ആട്രിബ്യൂട്ടുകൾ ഉണ്ട് അതായത് റോൾ നമ്പർ പേര് വർഷം ഡിപ്പാർട്ടുമെന്റുകൾ അങ്ങനെയുള്ളവ ഇനി നിങ്ങൾ പറയുകയാണ് നിങ്ങൾക്ക് ഡിപ്പാർട്ടുമെന്റിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ ചോദിക്കണമെന്ന് ഡേറ്റാബെസ് അതു ചെയ്യുന്നു നിങ്ങൾക്ക് ഈ മൊത്തം സ്റ്റ്യൂഡന്റ് ട്യൂപ്യൂൾ എടുക്കേണ്ട അവശ്യം ഇല്ല ഡിപാർട്ട്മെന്റ് എവിടെ എന്നറിയാൻ വേണ്ടി ഡേറ്റാബെസ് തന്നെ അത് ചെയ്യുന്നു പക്ഷെ ഇത്തരത്തിലുള്ള ഡോക്യൂമെന്റ് ഡേറ്റാ ബെസിലോ കീവാല്യൂ സ്റ്റോറുകളിലൊ അല്ല അത് വലുത് അല്ല നമുക്ക് ആ ഡേറ്റാ ബെസിനെ വിശകലനം ചെയ്യണം അപ്പോൾ നമുക്ക് ഇവിടെ വീണ്ടും മാപ് റെഡ്യൂസ് ഫ്രെയിംവർക്കിനെ ഉപയൊഗിക്കാം അത് നല്ല ഗുണം ഉള്ളതാണ് അപ്പോൾ ഡോക്യൂമെന്റ് ഡേറ്റാ ബെസ് എന്നത് താഴെ പറയുന്ന കാര്യങ്ങളിൽ വളരെ ഗുണം ഉള്ള ഒന്നാണ് നമ്മൾ ഒരു ഡേറ്റയെ ഒരു പ്രാവശ്യം കേറ്റുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ഇൻസർട്ട് ചെയ്യുകയും ഒരുപാട് പ്രാവശ്യം വായിക്കുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് ഒരു ലൈബ്രററി എടുക്കുക അത് പുസ്തകം ഒരു പ്രവശ്യം എടുക്കും എന്നിട്ട് ഒരുപാട് പേർ ആ പുസ്തകത്തെ തിരയുകയും വായിക്കുകയും ചെയ്യും ഇതിനെ നമുക്ക് സ്കെയിൽ അപ് നന്നായി ചെയ്യുവാൻ പറ്റും ഇത് ഡോക്യൂമെന്റ് ബെസിന്റെ ഒരു ഗുണമാണ് ഇനി അതിന്റെ ഉദാഹരണമെന്നത് മോംഗോ DB അത് ഒരു ഡോക്യൂമെന്റ് ഡേറ്റാ ബേസ് ആണ് അതുപോലെ തന്നെ കൌച്ച് D B അതും ഡോക്യൂമെന്റ്റ് ഡേറ്റാബേസ് ആണ് ഇതാണ് വലിയ രണ്ട് ഉദാഹരണങ്ങൾ അവസാനം നമ്മൾ ഗ്രാഫ് ഡേറ്റാബേസിൽ എത്തി അതിൽ മൊത്തം ട്യൂപൂൾകളെയെല്ലാവരെയും ഗ്രാഫ് ആയിട്ടാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് നോടുകൾ എന്താണ് നോടുകൾ ഗ്രാഫിലെ എൻറ്റിറ്റിയെ കാണിക്കുന്നു ഫെയിസ്ബുക്ക് ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ ഓരോ ആൾക്കാരും അല്ലെങ്കിൽ ഓരോ അക്കൌണ്ട് ഹോൾഡറും ഒരു നോട് ആണ് അതിലെ എഡ്ജ്കൾ റിലേഷൻഷിപ്പിനെ കാണിക്കുന്നു ഫ്രണ്ട്സ് റിലേഷൻഷിപ്പ് അപ്പോൾ ഒരു എഡ്ജ് ആണ് അപ്പോൾ ഈ മൊത്തം കാര്യത്തേയും ഗ്രാഫ് ഡേറ്റാബേസ് ആയിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇതിനെ റിലേഷണൽ രീതിയിൽ സൂക്ഷിക്കാൻ പ്രയാസമാണ് അതെ സമയം ഗ്രാഫ് ഫോർമാറ്റിൽ ചെയ്യുകയാണെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്കെല്ലാം കൂടുതൽ നാച്വറലും എളുപ്പവുമാകും സൂക്ഷിക്കാൻ ഉദാഹരണത്തിന് നോഡ് എഡ്ജ് പോലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ദിശ കാണിച്ചു തരും അത് അപ്പോൾ ദിശ ഉള്ളതായിരിക്കാം ദിശ ഇല്ലാത്തതായിരിക്കാം അത് ഏത് തരത്തിലുള്ള അപ്ലിക്കേഷനാണ് എന്നതിനനുസരിച്ചിരിക്കും അതിന് ഹൈപർ എഡ്ജുകളും ഉണ്ടാകാം ഈ ഹൈപ്പർ എഡ്ജ് എന്നത് രണ്ട് നോടുകളുടെ ഇടയിൽ വരുന്ന ഒരു എഡ്ജ് അല്ല അത് ഒരുപാട് നോടുകളിൽ വരാം ഉദാഹരണത്തിന് ഫെയിസ് ബുക്കിൽ ഉള്ള ഒരു ഗ്രൂപ്പിന് ഒരുപാട് നോടുകൾ ഉണ്ടാകാം ആ ഒരു ഗ്രൂപ്പിനെ അതിൽ ഉള്ള ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഹൈപ്പർ എഡ്ജിനെ ഉപയോഗിക്കാം അതിലുള്ള എല്ലാ നോടുകളെയും ചേർക്കാൻ വേണ്ടി ഈ ഗ്രാഫ് ഡേറ്റാബേസ് എന്തു കൊണ്ടാണ് ഗുണപ്രദം ആകുന്നത് അത് ചില പ്രത്യേക ചോദ്യങ്ങളിൽ ഗുണം വരുത്തും നമ്മൾക്ക് ഉദാഹരണത്തിന് എല്ലാ പേരുടെയും അയൽവാസികളെയും കണ്ടു പിടിക്കണം അതുപോലെതന്നെ എനിക്ക് കൂട്ടുകാരുടെ കൂട്ടുകാരെയും കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ റിലേഷനൽ ഫോർമാറ്റിലും കീവാല്യൂ ഫോർമാറ്റിലും ഇത് ചെയ്യുവാൻ ബുദ്ധിമുട്ടായിരിക്കും അതിനകത്ത് നമ്മൾ എല്ലാ മൂല്യങ്ങളെയും നോക്കുകയും സ്വന്തമായി തന്നെ വിലയിരുത്തുകയും ചെയ്യണം പക്ഷേ ഗ്രാഫിൽ ആണെങ്കിൽ അത് കുറച്ചു കൂടി നാച്വറൽ ആണ് കൂട്ടുകാരുടെ കൂട്ടുകാരെ കണ്ടു പിടിക്കുവാനും ആതുപോലെ തന്നെ അയൽവാസികളെ കണ്ടു പിടിക്കാനും ഇതിനെ ഫെയ്സ്ബുക്കും മറ്റ് ആൾക്കാരും മറ്റ് കമ്പനികളും കാണിക്കുന്നുണ്ട് ഇത് കുറച്ചു കൂടി വേഗത ഉള്ളതും കാര്യക്ഷമതയുള്ളതും സ്കെയിലബിളും ആണ് ഇനി ഇവയുടെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് NEO 4J ഹൈപ്പർ ഗ്രാഫ് ടൈറ്റൻ എന്നിവയുണ്ട് ഒരുപാട് വേറെ ഉദാഹരണങ്ങളും ഉണ്ട് No SQLന്റെ കാര്യങ്ങളെന്തൊക്കെയാണ് അത് SQL മൂവ്മെന്റിന് എതിരെ തുടങ്ങിയതാണെങ്കിലും അത് പറയുന്നത് SQLനെ നമുക്ക് ഇനി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അതായത് SQL മാത്രം ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് അതിന് റിലേഷണൽ ഡേറ്റാബേസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നും ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിലേഷനൽ ഡേറ്റാബേസ് എന്നത് ശക്തി ഏറിയതാണ് റിലേഷന് ഡേറ്റാബേസ് സ്കെയിൽ ചെയ്യുകയോ കൺസിസ്റ്റൻസി തരികയോ ട്രാൻസാക്ഷൻ തരികയോ ചെയ്യുകയില്ല അതുകൊണ്ട് അത് ചില ആപ്ലിക്കേഷനുകൾക്ക് കർശനമായി വരാം അപ്പോൾ ഇവ ആവശ്യം വരുന്നില്ല അപ്പോൾ ഇവിടെ അസിഡിറ്റിയെ ത്യാഗം ചെയ്യാൻ പറ്റും നമ്മൾക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് സെറ്റപ്പിൽ പോകാൻ പറ്റും അത് കൂടുതൽ സ്കെയിലബിൾ ആണ് പക്ഷേ നോഎസ്ക്യൂഎൽ എല്ലാ കാര്യങ്ങളിലും ഉപയോഗിക്കുവാൻ പറ്റുകയില്ല ബാങ്കിങ്ങ് കാര്യത്തിൽ കൺസിസ്റ്റൻസി ട്രാൻസാക്ഷൻ പ്രൊട്ടക്ഷൻ ഡ്യൂറബിലിറ്റി എന്നിവ വളരെ ആവശ്യം ഉള്ളവയാണ് അതുകൊണ്ട് നോ എസ് ക്യൂഎൽ സിസ്റ്റം അവിടെ വിജയിക്കുന്നില്ല ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാർ കൺസിസ്റ്റൻസി പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട് കൺസിസ്റ്റൻസി എല്ലാ ആപ്ലിക്കേഷനുകളിലും താല്പര്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നോഎസ്ക്യൂഎൽ നെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട് എങ്കിലും അത് റിലേഷനൽ ഡേറ്റാ ബേസിന്റെ അടുത്ത് എത്തില്ല പിന്നെ ഡേറ്റാബേസ് റിസർച്ചർമാർ പരമ്പരാഗതമായ RDBMS ഉപയോഗിച്ച് നോഎസ്ക്യൂഎൽന്റെ പ്രശ്നങ്ങൾ തീർക്കുവാൻ ശ്രമിക്കുന്നുണ്ട് മിക്ക ലെഗസി സിസ്റ്റങ്ങളും ഇപ്പൊഴും RDBMS ആണ് ഉപയോഗിക്കുന്നത് റോ എസ്ക്യുഎൽന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ബിഗ് ഡേറ്റയും കൌള്ഡ് കംപ്യൂട്ടിങ്ങും വന്നപ്പോൾ അവ നോഎസ്ക്യൂഎൽ സിസ്റ്റത്തെ ഉപയൊഗിക്കുവാൻ ശ്രമിക്കുന്നു അതിന്റെ പ്രോപ്പർട്ടി ഉപയോഗിക്കുവാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ സപോർട്ട് സിസ്റ്റത്തിന്റെ ബാക്ക് എൻഡ് ഡേറ്റാബേസ് ആയിട്ട് വക്കുന്നു ഇതോടെ നോഎസ്ക്യൂഎൽന്റെ മോഡ്യൂൾ തീരുകയാണ് അടുത്തത് നമ്മൾ ബിഗ് ഡേറ്റയെ കുറിച്ചു നോക്കുവാൻ പോകുന്നു